പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് III ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഇവിടെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് പഠിപ്പിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ സങ്കീർണ്ണമായ ത്രിമാന വസ്തുക്കളെ നമ്മൾ നോക്കും അവ പ്ലെയിനുകളിലേക്ക് ചായുമ്പോൾ ആ ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കാം ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു പെന്റഗൺ പ്രിസം ഉണ്ട് അത് തിരശ്ചീന തലത്തിൽ ബേസ്ന്റെ ഒരു വശത്ത് സ്ഥാപിച്ചിരിക്കുന്നു ബേസ് അല്ലെങ്കിൽ ആക്സിസ് തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞു ഇരിക്കുന്നു അതിനാൽ ഒന്നുകിൽ ബേസ് ഒരു പെന്റഗോൺ പ്രിസമാണ് അതായത് 5 വശങ്ങളുണ്ട് അതിന്റെ മുഴുവൻ ബേസ് അല്ലെങ്കിൽ ആക്സിസ് തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞതാകാം ഇപ്പോൾ ഈ അക്ഷം ലംബ തലം അല്ലെങ്കിൽ ഈ തിരശ്ചീന തലം എന്നിവയോടു ലംബമല്ല ചെറുതായി ചെരിഞ്ഞ് ഇരിക്കുന്ന ഒരു വസ്തു ഉദാഹരണത്തിന് നമ്മൾ ഈ പെന്റഗൺ പ്രിസങ്ങൾ ഒരു വ്യൂ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അതിൻറെ ആക്സിസ് പ്രത്യേകിച്ച് ഫ്രണ്ട് വ്യൂ ലംബ തലത്തിൽ മാത്രം കാണാനാകും അതിനാൽ ആ ഫ്രണ്ട് വ്യൂവിൽ ഈ അക്ഷം തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞതായി കാണാം അതിനാൽ വരച്ചതിനുശേഷം പ്രിസം ഒരുപക്ഷേ ആ രീതിയിൽ ചെരിഞ്ഞതായി കാണാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോപ് വ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നേരെ പെന്റഗൺ നൽകില്ല അല്ലെങ്കിൽ ഒരുപക്ഷേ ചതുരാകൃതിയിലുള്ള ബോക്സ് പോലെ തോന്നും ഇത്തരത്തിലുള്ള വസ്തുവിൻറെ ആകാരം പോലുള്ള ഒന്ന് നമ്മൾ കാണും ഘട്ടം ഘട്ടമായി അത് എങ്ങനെ ചെയ്യാം ഈ പ്രഭാഷണത്തിൽ നാം അത് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതിനാൽ ആ ചെരിഞ്ഞ അച്ചുതണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്ന ഒരു പെന്റഗൺ നിർമ്മിക്കുക എന്നതാണ് അതിനാൽ അരികുകളിലൊന്ന് അത് ലംബ തലവുമായി ലംബമായിരിക്കുമെന്ന് നമ്മൾ ഉറപ്പാക്കുന്നു അതിനാൽ നമുക്ക് ഈ പ്രിസം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രിസം മുഴുവനായും നിർമ്മിക്കുന്നതാണ് അതിനാൽ ടോപ് വ്യൂവിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ കാണും അതിനാൽ HP യിലേക്ക് അക്ഷം ലംബം ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ അച്ചുതണ്ട് ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ അത് തിരിക്കും അതിനാൽ ഈ വസ്തു മുഴുവൻ ആ ദിശയിലേക്ക് ചരിഞ്ഞു ഈ രീതിയിൽ അത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒന്നാമതായി തിരശ്ചീന തലത്തിലെ ടോപ് വ്യൂവിൽ നമ്മൾ ഒരു പെന്റഗൺ വരയ്ക്കുന്നു അവിടെ ഈ അരികോ ഉപരിതലമോ ലംബ തലവുമായി ലംബമായി ഇരിക്കുന്നു ഇപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ഈ പെന്റഗൺ മുഴുവനായും വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഈ രേഖ ഉപരിതലത്തിൽ ഒരു അരികുമായി യോജിക്കുന്നു ഈ മുഴുവൻ ഉപരിതലവും ഈ ഉപരിതലവുമായി യോജിക്കും ഇത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു അതിനാൽ ഈ ലൈൻ എല്ലായ്പ്പോഴും യോജിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മുഴുവൻ വസ്തുവിനെയും ഈ ദിശയിലേക്ക് തിരിക്കുക എന്നതാണ് അതിനർത്ഥം അടിസ്ഥാനപരമായി നമുക്ക് ഉള്ള അക്ഷം ഡാഷ് ഡോട്ട് ലൈൻ ഇത് ആ ദിശയിലേക്ക് തിരിക്കണം അതിനാൽ ഈ രേഖയെല്ലാം ആ ദിശയിലേക്ക് തിരിക്കണം ഈ മുഴുവൻ രേഖയും ആ ദിശയിലേക്ക് തിരിക്കേണ്ടതുണ്ട് ഇതും ആ ദിശയിലേക്കാണ് ആ രീതിയിൽ നമുക്ക് അത് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ അക്ഷം ആ വഴിക്ക് പോകുന്നു അതിനാൽ നമ്മൾ അത് ചെയ്യുമ്പോൾ ഒന്നാമതായി ചില ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു അക്ഷം വരയ്ക്കുന്നു അത് 45 ഡിഗ്രി ഉണ്ടാക്കുന്നുവെങ്കിൽ 45 ഡിഗ്രിയിൽ ആദ്യം നമ്മൾ ഒരു അക്ഷം വരയ്ക്കുന്നു ഇത് ഈ പോയിന്റിനെ അടിസ്ഥാനമാക്കി അത് തിരിക്കുന്നു അതിനാൽ ഈ പോയിന്റ് എല്ലായ്പ്പോഴും അതിൽ വിശ്രമിക്കുന്നു കോമ്പസ് ഉപയോഗിച്ച് ആ ദൂരം എന്തുതന്നെയായാലും ഈ അക്ഷത്തിന് ലംബമായി ഒരു ആർക്ക് ഉണ്ടാക്കുന്നു തുടർന്ന് ആ രേഖയിൽ യോജിപ്പിക്കുന്നു അതുപോലെ നമ്മൾ ഇത് മുഴുവൻ തിരിക്കുമ്പോൾ a b ലൈനും തിരിക്കും അത് ചെയ്യാൻ നമ്മൾ എന്തുചെയ്യും c 1 മുതൽ c ആ ദൂരം എന്തുതന്നെയായാലും നമ്മൾ അതേ ആംഗിൾ ഉണ്ടാക്കുന്നു അതിനാൽ ഇത് 45 ഡിഗ്രിയാണെങ്കിൽ നമുക്ക് ഇത് 45 ഡിഗ്രി രേഖയും പരിഗണിക്കാം ഈ സ്ഥാനത്ത് നിന്ന് നമ്മൾ അത് വരയ്ക്കും ഈ ദിശയിലേക്ക് ഈ നീളം കൈമാറുക അതുപോലെ ഈ ദിശയിലേക്ക് ഈ നീളം കൈമാറുക അതുപോലെ അതേ 45 ഡിഗ്രി കോണിലൂടെ ഈ ദിശയിലേക്ക് ആ നീളം മാറ്റുക അതിനാൽ ഫ്രണ്ട് വ്യൂവിൽ കാണാൻ കഴിയുന്ന പ്രിസത്തെ നമ്മൾ ചെരിച്ചു

അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റുകളെല്ലാം താഴേ തിരശ്ചീന തലത്തിലേക്ക് മാറ്റുന്നു അതിനാൽ ഈ പോയിന്റുകൾ ഈ രേഖ മാപ്പുചെയ്യുന്ന തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് അതിലേക്ക് മാപ്പുചെയ്യുന്നു ഒപ്പം b b 1 പോയിന്റും മറ്റും അതിനാൽ ഈ രീതിയിൽ നമ്മൾ ഈ രേഖകൾ മാപ്പ് ചെയ്യുന്നു ഈ പോയിൻറുകൾ മാപ്പുചെയ്യുക അതിൽ നിന്നും നമുക്കുള്ള ഇൻറർസെക്ഷൻ എന്തുതന്നെയായാലും ഈ പെന്റഗൺ പ്രിസം നിർമ്മിക്കാൻ നമുക്ക് കഴിയും അദൃശ്യമായ ഏതൊരു വശവും ആ രീതിയിൽ ഡാഷ് ചെയ്ത രേഖകളിലൂടെ നമ്മൾ കാണിച്ചു ഇത് തുടർച്ചയായ ഒരു രേഖയാണ് അതിനാൽ ഫ്രണ്ട് വ്യൂവിൽ തിരശ്ചീന തലത്തിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഈ പെന്റഗൺ പ്രിസം ഉണ്ടാക്കുന്നു അത് ഇങ്ങനെയാണെന്നും ടോപ് വ്യൂവിൽ അങ്ങനെയാണെന്നും തോന്നുന്നു നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു ഹെക്സഗണൽ പിരമിഡ് തിരശ്ചീന തലത്തിൽ അതിന്റെ അടിസ്ഥാന അരികുകളിലൊന്നിൽ അതിന്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞ അടിയിൽ കിടക്കുമ്പോൾ അതിനാൽ നമുക്ക് ഒരു ഹെക്സഗണൽ പിരമിഡ് ഉണ്ട് അത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു 6 വശങ്ങൾ ഉണ്ടാകും ഈ ബേസ് അരികുകളിലൊന്ന് അതിന്റെ അക്ഷവുമായി ബന്ധപ്പെട്ട് തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞിരിക്കും അതിനാൽ ബേസും അക്ഷവും ചെരിഞ്ഞതും അരികുകൾ ചെരിഞ്ഞതുമായ രീതിയിൽ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ആ ഉദാഹരണം നോക്കാം അതിനാൽ ഇത് ഒരു ഹെക്സഗണൽ പിരമിഡാണ് അതിനാൽ 6 വശങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട് ആ 6 വശങ്ങളുള്ള ഒരു ഹെക്സഗണൽ പിരമിഡാണ് അതിനാൽ ചെരിഞ്ഞ ഫെയ്സ്സുകളെല്ലാം ടോപ് വ്യൂവിൽ ദൃശ്യമാകും അതിനാൽ തുടർച്ചയായ രേഖകൾ നമ്മൾ കാണിക്കും അതിന്റെ പ്രൊജക്ഷൻ ഒരു ത്രികോണം പോലെ ഈ രേഖകളിലൊന്ന് അവിടെ യോജിക്കുന്നു ഇപ്പോൾ അക്ഷം ചെരിഞ്ഞിരിക്കണം അതിനാൽ ഇതാണ് അക്ഷം ഇത് നമ്മൾ തിരിക്കുന്നു അതിനാൽ ഈ അക്ഷം നമ്മൾ ഒരു നിശ്ചിത ആംഗിളിൽ കറങ്ങുകയാണെങ്കിൽ അത് ആ വഴിക്ക് പോകുന്നു ഈ ദൈർഘ്യം അതിന് നോർമലായി മാറ്റുക അതുപോലെ ഈ രേഖകൾ ആ രീതിയിൽ കൈമാറുക ഇവിടെ നിന്ന് ദൂരം അളക്കുക ഒരു ആർക്ക് ഉണ്ടാക്കുക അതുപോലെ ആ ദൂരം എടുത്ത് ആ സ്ഥാനത്ത് നിന്ന് ഒരു ആർക്ക് ഉണ്ടാക്കുന്നു അതിനാൽ ഇന്റർസെക്ഷൻ പോയിന്റ് യോജിക്കുന്നു അതുവഴി നമുക്ക് ഈ ഭാഗം ലഭിക്കും ഇപ്പോൾ തിരശ്ചീന തലത്തിൽ ഈ പോയിന്റുകളെല്ലാം കൈമാറുക അതുപോലെ ഈ തിരശ്ചീന തലത്തിൽ ഈ പോയിന്റുകൾ കൈമാറുക ഈ പോയിന്റുകൾ ഈ തലത്തിൽ ഇന്റർസെക്ക്ട് ചെയ്യുന്നു ഇപ്പോൾ ദൃശ്യമായ രേഖകൾ തിരിച്ചറിയുക ഈ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ a o o രേഖകൾ കാണും അതായത് a മുതൽ o വരെ ദൃശ്യമാകും അതുപോലെ f o ഫേസും ദൃശ്യമാണ് അതിനാൽ അത് അങ്ങനെയായിരിക്കും തീർച്ചയായും a മുതൽ f' നമുക്ക് കാണാനാകുന്ന ഈ രേഖയും ദൃശ്യമാണ് ഇപ്പോൾ b ഉപരിതലം ആ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ b മുതൽ o വരെ ദൃശ്യമാണ് a മുതൽ b വരെയുള്ള ഉപരിതലവും ദൃശ്യമാണ് അതുപോലെ f മുതൽ e ഉപരിതലത്തിൽ f ൻറെ പുറകുവശത്ത് e ദൃശ്യമാണ് f മുതൽ o വരെയും ദൃശ്യമാണ്അതുപോലെ e മുതൽ o വരെയും ദൃശ്യമാണ് അതിനാൽ പിരമിഡിൽ കോൺ കാണപ്പെടുന്ന രീതി ഇതാണ് അതിന്റെ പിന്നിലുള്ള മറ്റ് ആന്തരിക കാര്യങ്ങൾ കാണാനാകില്ല അതിനാൽ അത് ആ വഴിക്ക് പോകുന്നു ഈ c മുതൽ d വരെ ഉള്ള രേഖയും അദൃശ്യമാണ് അതിനാൽ നമുക്ക് ആ ഡാഷ് ലൈൻ ഉണ്ടാകും അതിനാൽ മൊത്തത്തിലുള്ള നിർമ്മാണത്തിൽ ഫ്രണ്ട് വ്യൂ ചെരിഞ്ഞതുപോലെയാണെന്നും ടോപ് വ്യൂവിൽ ഈ അവ്യക്തമായ പിരമിഡ് ആയും കാണുന്നു ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം തിരശ്ചീന തലത്തിൽ ഒരു ഹെക്സഗണൽ പ്രിസത്തിൻറെ ബേസിലെ ഒരു കോർണർ മുട്ടിച്ച് സ്ഥാപിക്കേണ്ടതുണ്ട് അതായത് ബേസ് അല്ലെങ്കിൽ അക്ഷമോ തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞിരിക്കുന്നു തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്ന പോയിന്റുകൾ എന്താണെന്ന് ചിന്തിക്കുക തിരശ്ചീന തലം അല്ലെങ്കിൽ ലംബ തലം ആയി ആക്സിസ് ചെരിയ്യുന്നുണ്ടോ എന്തു അർത്ഥത്തിൽ HP യിൽ ബേസിൻറെ ഒരു കോർണർ മുട്ടിച്ച് ഒരു ഹെക്സഗണൽ പ്രിസം ഇരിക്കുന്നു അതിനാൽ നമുക്ക് ആ ഉദാഹരണം നോക്കാം അതിനാൽ ആദ്യം ഇത് ഒരു ഹെക്സഗണൽ പ്രിസമാണ് ഇൻക്ക്ളിനേഷൻ ആംഗിൾ എന്തായിരുന്നാലും ആദ്യം ഒരു ചിത്രത്തിൽ നിന്ന് ആരംഭിക്കുക തുടർന്ന് അനുയോജ്യമായ ഭ്രമണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു അങ്ങനെ തന്നിരിക്കുന്ന വ്യവസ്ഥകൾ നിറവേറ്റപ്പെടും അതിനാൽ ആദ്യം ഒരു ഹെക്സഗണൽ പ്രിസം വരയ്ക്കുക ഫ്രണ്ട് വ്യൂവിൽ ഇത് ഒരു ദീർഘചതുരം പോലെ കാണപ്പെടുന്നു ഈ ഫെയ്സ് നമുക്ക് പൂർണ്ണമായും കാണാൻ കഴിയും ആ വഴിക്ക് പോകുന്നു ആക്സിസ് അദൃശ്യമാണ് അതിനാൽ ഡാഷ് ഡോട്ട് ലൈനുകൾ വരയ്ക്കുന്നു ആ തിരശ്ചീന തലത്തിലേക്ക് അക്ഷം ചെരിഞ്ഞിരിക്കുന്നു അത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അതിനാൽ ആക്സിസ് ഡാഷ് ഡോട്ട് ലൈൻ ഉപയോഗിക്കുന്നു ഈ രേഖകളെല്ലാം കൈമാറുക അതുവഴി ഇത് കാണും ആ ബേസ്ന്റെ കോർണർ എല്ലായ്പ്പോഴും തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ തിരശ്ചീന തലത്തിൽ വിശ്രമിക്കാൻ നമ്മൾ ഇത് നിർമ്മിച്ചത് ഈ മൂല ഇപ്പോഴും ആ തിരശ്ചീന തലത്തിൽ നിലനിൽക്കുന്നു അതിനാൽ ഈ പോയിന്റ് എല്ലായ്പ്പോഴും ആ നിലയിലാണ് ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്നും ഈ ദിശയിൽ നിന്നും ടോപ് വ്യൂവിൽ നിന്നും ഈ പോയിന്റുകൾ പ്രൊജക്റ്റ് ചെയ്യുക ഇവിടെ നിന്ന് പോയിന്റുകൾ കൈമാറുക അങ്ങനെ അത് ഇന്റർസെക്ക്ട് ചെയ്യുന്നു അതിനാൽ ശ്രദ്ധിക്കണം നമുക്ക് ഈ ദിശയിൽ നിന്ന് ഒരു കൈമാറ്റം ചെയ്യാം അത് എവിടെയെങ്കിലും പോകുന്നു അതുപോലെ a1 അത് കൈമാറുന്നു എവിടെ അവ ഇന്റർസെക്ക്ട് ചെയ്യുന്നു ആദ്യം a പോയിന്റ് നോക്കാം എന്നിട്ട് b നോക്കാം b ൽ നിന്ന് നീങ്ങുക അവിടെ അവ ഇന്റർസെക്ക്ട് ചെയ്യുന്നിടത്ത് ആ പോയിന്റുകൾ കണ്ടെത്തുക അതുപോലെ ആ പോയിന്റിലേക്കു c മാപ്പ് ചെയ്യുക ആ പോയിന്റിലേക്കു c മാപ്പ് ചെയ്തു d e 1 f 1 ലഭിക്കുന്നു അതുപോലെ മറുവശത്ത് a e c d' പോയിന്റുകൾ ഈ വിവരങ്ങൾ നൽകുന്നു ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്ലെയിൻ മുഴുവൻ ദൃശ്യമാകും അതിനാൽ നമ്മൾ അതിനെ ഒരു ഹെക്സഗൺ ആയി കാണുന്നു നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ ഹെക്സഗൺന്റെ ഭൂരിഭാഗവും അരികുകൾ ഒഴികെ അദൃശ്യമാണ് അതിനാൽ ആന്തരിക കാര്യങ്ങൾ അദൃശ്യമാണ് ഇതിന് ഒരു കാരണമുണ്ട് ഇത് ദൃശ്യമാണ് അതിനാൽ നമുക്ക് തുടർച്ചയായ ഒരു രേഖയുണ്ട് ഈ അരികുകളും ദൃശ്യമാണ് ഇത് തുടർച്ചയായ രേഖകളാണ് നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഇത് ഒരു ഹെക്സഗണൽ പിരമിഡാണ് പിരമിഡ് എന്നാൽ നമുക്ക് ഈ അപ്പക്സ് അല്ലെങ്കിൽ വെർട്ടക്സ് ഉണ്ടെന്നും തിരശ്ചീന തലത്തിൽ അതിന്റെ ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്സുകളിൽ ഒന്നു സ്ഥാപിച്ചിട്ടുണ്ടെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ആ തിരശ്ചീന തലത്തിൽ കിടക്കുന്ന ഒരു പിരമിഡ് നമുക്ക് ഉണ്ട് അതിനാൽ ഫെയ്സ് എല്ലായ്പ്പോഴും ആ തിരശ്ചീന തലത്തിൽ സ്പർശിക്കുന്നു അങ്ങനെയാണെങ്കിൽ തിരശ്ചീന തലത്തിൽ അതിന്റെ ബേസ് വിശ്രമിക്കുന്ന രീതിയിൽ ആദ്യം അത് തിരിക്കുക അതിനാൽ ഈ പിരമിഡ് ഹെക്സഗണൽ പിരമിഡ് തിരശ്ചീന തലത്തിൽ അതിന്റെ ബേസിൽ വിശ്രമിക്കുമ്പോൾ ടോപ് വ്യൂവിൽ ഈ ഹെക്സഗൺ നമ്മൾ ഈ രീതിയിൽ കാണും അക്ഷം o വഴി പോകുന്നു ഇത് പ്രൊജക്റ്റ് ചെയ്യുക അങ്ങനെ ഫ്രണ്ട് വ്യൂവിൽ ഈ അധിക അരികിനൊപ്പം ഒരു ത്രികോണമായി നമ്മൾ കാണും നമ്മൾ നോക്കുമ്പോൾ ഈ അരിക് മുഴുവൻ ഇവിടെ ദൃശ്യമാകും ഇപ്പോൾ ഈ അക്ഷം തിരശ്ചീന തലം അരികുകളിൽ ഒന്ന് എന്നിവയിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിൽ തിരിക്കുക അരികുകളിലൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അരികുകളിൽ ഒന്നാണ് ഞാൻ അത് ആ ദിശയിൽ തിരിക്കുകയാണെങ്കിൽ ഈ o c അരിക് നിലത്ത് വിശ്രമിക്കണം അതിനാൽo c നമ്മൾ അത് വരയ്ക്കുന്നു o മുതൽ c' വരെ അളക്കുക o c കണ്ടെത്തുക അത് വരയ്ക്കുക ഇപ്പോൾ ഈ a' d' ഇത് മാറ്റുക ഇവിടെ നിന്ന് ആ നീളം ഒരു ആർക്ക് ഉണ്ടാക്കുന്നതെന്തും അളക്കുക കാരണം ഈ മുഴുവൻ കാര്യവും ഇവിടെ നിന്നും ഇത് അളക്കുക മറ്റൊരു ആർക്ക് ഉണ്ടാക്കുക അതിനാൽ ആ പോയിന്റ് ലഭിച്ചുകഴിഞ്ഞാൽ ഇത് ത്രികോണം വഴി ബന്ധിപ്പിക്കുക നടുവിലുള്ള ഈ നീളം അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിനെ ബന്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ ആ ത്രികോണം നിർമ്മിക്കാൻ കഴിയും നമുക്ക് ആ കൈമാറ്റം ലഭിച്ചുകഴിഞ്ഞാൽ ഈ പോയിന്റ് താഴേക്ക് ലംബമായി പ്രൊജക്ഷനുകൾ ഉണ്ടാക്കുക അതുപോലെ നമുക്ക് e b പോയിൻറുകൾ ഉണ്ട് ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തവയാണ് ആ രീതിയിൽ നമുക്ക് a b c കണ്ടെത്താനും c d ആയി മാപ്പ് ചെയ്യാനും എന്നിട്ട് e പോയിന്റ് e f പോയിന്റ് ആയി മാപ്പ് ചെയ്യാനും കഴിയും ഇതിനകം തന്നെ നമ്മൾ അത് കൈമാറി അത് ചെയ്തുകഴിഞ്ഞാൽ ദൃശ്യമാകുന്ന ഫെയ്സ്സുകളെല്ലാം നമ്മൾ ബന്ധിപ്പിക്കുന്നു അതിനാൽ ദൃശ്യമാകുന്ന ഫെയ്സ് എല്ലായ്പ്പോഴും a o ഫെയ്സ് ആണ് o ഇതും ദൃശ്യമാകുന്ന ഒന്നാണ് അതിനാൽ നമ്മൾ അതിനെ ബന്ധിപ്പിക്കും അതുപോലെ മറുവശത്ത് e ദൃശ്യമാകും അതുപോലെ f ദൃശ്യമാകും ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ a മുതൽ f വരെ ലൈൻ എല്ലായ്പ്പോഴും ദൃശ്യമാകും നമ്മൾ അത് യോജിപ്പിക്കുന്നു c മുതൽ d വരെയും ദൃശ്യമാണ് അതിനാൽ നമ്മൾ അത് യോജിപ്പിക്കുന്നു ഇപ്പോൾ c യിൽ നിന്ന് നോക്കുമ്പോൾ ഈ പോയിന്റ് e ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ അതും ഇതും ദൃശ്യമാകും ശേഷിക്കുന്ന രേഖകൾ എല്ലായ്പ്പോഴും അദൃശ്യമാണ് അതിനാൽ ഡാഷ് ചെയ്ത രേഖകളിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നു നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ബേസ് 40 X 50 മില്ലീമീറ്റർ വശങ്ങളിലുള്ള ദീർഘചതുരാകൃതിയിലുള്ള പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും വരയ്ക്കുക ഇത് ഒരു ദീർഘചതുരാകൃതിയിലുള്ള പിരമിഡാണ് നിങ്ങൾക്ക് വ്യത്യസ്ത വശങ്ങളിൽ വ്യത്യസ്ത നീളം 40 x 50 മില്ലീമീറ്റർ ഉണ്ട് ഇതിന് 70 മില്ലീമീറ്റർ ഉയരമുണ്ട് തിരശ്ചീന തലത്തിൽ അതിന്റെ വലിയ ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്സുകളിൽ ഒന്നിൽ വിശ്രമിക്കുന്നതിനാൽ പിരമിഡായതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും ഈ അപെക്സ് വെർട്ടക്സ് എന്നിവയുണ്ട് ബെയ്സ് ദീർഘചതുരാകൃതിയിലുള്ള കാര്യമായിരിക്കാം നിങ്ങൾ ഈ ബേസ് വെർട്ടെക്സിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്സുകൾ കാണും തിരശ്ചീന തലത്തിലുള്ള വലിയ ത്രികോണ ഫെയ്സ്സുകളും കൂടാതെ തിരശ്ചീന തലത്തിൽ കിടക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്ൻറെ ബെയ്സ്ന്റെ നീളംകൂടിയ അരിക് അത് ലംബ തലത്തിലേക്ക് 60 ഡിഗ്രിയിൽ ചരിഞ്ഞിരിക്കുന്നു ടോപ് വ്യൂവിൽ അത് ദൃശ്യമാണ് പിരമിഡിന്റെ അപെക്സ് ലംബ തലത്തിന് സമീപമാണ് അതിനാൽ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി നമ്മൾ ഇത് ആദ്യം നിർമ്മിക്കുമ്പോൾ വസ്തു എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമ്മൾ ദൃശ്യവൽക്കരിക്കണം ഈ അവസാന പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ പിരമിഡിന്റെ അപെക്സ് ലംബ തലത്തിനടുത്തായിരിക്കുന്നതിനാൽ ഈ പിരമിഡിനെ നമ്മൾ ഓറിയന്റുചെയ്യേണ്ട വഴി ഇതിനകം തന്നെ മുൻഗണനാ ദിശ നൽകുന്നു അതിനാൽ അപെക്സ് എല്ലായ്പ്പോഴും ലംബ തലത്തിന് സമീപമാണ് അതിനാൽ ഇത് ലംബമായ തലം ആണെങ്കിൽ ഇത് ഒരു അപെക്സ് ആണെങ്കിൽ അത് ആ രീതിയിൽ കൊണ്ടുവരണം അത് ആ രീതിയിലായിരിക്കാം പക്ഷേ ഈ അപെക്സ് ആ രീതിയിലായിരിക്കണം പക്ഷേ അത് അങ്ങനെയാകരുത് രണ്ടാമത്തെ വ്യവസ്ഥ തിരശ്ചീന തലത്തിൽ കിടക്കുന്ന ത്രികോണാകൃതിയുടെ ബെയ്സ്ന്റെ നീളമേറിയ അരിക് അത് ടോപ് വ്യൂവിൽ 60 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു അതിനാൽ ഈ ലംബ തലത്തിൽ 60 ഡിഗ്രി ഉണ്ടാക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഫെയ്സ്ന്റെ നീളമുള്ള അരിക് കാണുമ്പോൾ ഈ ചിത്രം ഉപയോഗിച്ച് ഈ പിരമിഡ് എങ്ങനെയാണ് ചെരിഞ്ഞതെന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഒന്നാമതായി നമുക്ക് ഒന്നിലധികം റൊട്ടേഷനുകൾ ചെയ്യേണ്ടി വന്നേക്കാം അതിനാൽ ഒരു ദീർഘചതുരം വരയ്ക്കുന്ന രീതിയിൽ അത് ആരംഭിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇത് ഒരു പിരമിഡാണ് അതിനാൽ അരികുകൾ അവിടെ യോജിക്കും നമുക്ക് മറ്റെന്തെങ്കിലും നിറം കറുപ്പ് ഉപയോഗിക്കാം വ്യത്യസ്ത കാഴ്ച പ്രൊജക്ഷൻ ഒരു പിരമിഡാണ് അതിനാൽ നമ്മൾ അതിനെ ഒരു ത്രികോണമായി കാണും നമ്മൾ ഈ ദിശ നോക്കുമ്പോൾ ഇത് ഈ ത്രികോണ ഫെയ്സ്മായി യോജിക്കുന്നു അതുപോലെ തന്നെ ഇത് ആ ത്രികോണ ഫെയ്സ്മായി യോജിക്കുന്നു ഇപ്പോൾ ഈ ഭാഗവുമായി തിരശ്ചീന തലത്തിൽ കിടക്കുന്നു അതിനാൽ നമ്മൾ എന്തു ചെയ്യും o മുതൽ b വരെ ആദ്യം നമ്മൾ അത് തിരശ്ചീന തലത്തിൽ കണ്ടെത്തുന്നു തുടർന്ന് ഇത് കൃത്യമായി ആ സ്ഥാനത്തേക്ക് മാറ്റുക തുടർന്ന് ഈ പോയിന്റുകളെല്ലാം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അതുപോലെ ഈ പോയിന്റുകൾ പ്രൊജക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പിരമിഡ് ലഭിക്കും ഈ രീതിയിൽ ടോപ് വ്യൂവിൽ ഇത് കാണപ്പെടുന്നു ബാക്കിയുള്ളവ ഡാഷ് ചെയ്ത രേഖകളാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ നീളമുള്ള അരിക് ലംബമായ തലത്തിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്നു അതിനർത്ഥം ഈ രീതിയിൽ നാം അതിനെ കാണരുത് അതിന്റെ നീളം കുറയ്ക്കണം നമ്മൾ ദൈർഘ്യമേറിയ അരിക് തിരിക്കുമ്പോൾ നീളം കുറയുന്നത് പോലെയാണ് ഇത് നിങ്ങളുടെ കാഴ്ചയിൽ അരിക് നീളം കുറയുന്നു ഉദാഹരണത്തിന് ഇത് ദൈർഘ്യമേറിയതാണ് ആ നീളം കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അത് ലംബ തലത്തിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു ടോപ് വ്യൂവിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അതിനാൽ നമ്മൾ ചെയ്യുന്നത് ടോപ് വ്യൂവിൽ ചെയ്യുമ്പോൾ അത് ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിനാൽ ഈ വസ്തു മുഴുവനും കറങ്ങുന്നത് അത് തന്നെ തിരിക്കുന്നതും വരയ്ക്കുന്നതും ഈ ലെൻസ് കൈമാറുന്നതുമാണ് ഇൻക്ക്ളിനേഷൻ ആംഗിൾ നമ്മൾ ചെയ്യുമ്പോൾ ലംബ തലത്തിൽ ആ നീളമേറിയ അരിക് എങ്ങനെ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും അതിനാൽ ഇത് നമ്മൾ ഒരു നിശ്ചിത ആംഗിളിൽ തിരിക്കുന്നു അതിനുശേഷം ആ പോയിന്റുകൾ മുകളിലേക്കുള്ള ദിശയിലേക്ക് നമ്മൾ പ്രൊജക്റ്റുചെയ്യുന്നു ഇതാണ് നമ്മൾ തിരിക്കുന്നത് അതിനാൽ ഈ പോയിന്റുകൾ പ്രോജക്റ്റ് ചെയ്യുക അത് ചെയ്യുമ്പോൾ c പോയിന്റും c പോയിന്റും അവിടെ യോജിക്കുന്നു b പോയിന്റും b പോയിന്റും അവിടെ യോജിക്കുന്നു അതിനാൽ ഒരു രേഖ കൊണ്ട് അവയെ യോജിപ്പിക്കുന്നു അതുപോലെ a പോയിന്റും a പോയിന്റും അവിടെ യോജിക്കുന്നു അത് ബന്ധിപ്പിക്കുക അതുപോലെ d പോയിന്റ് ഈ d പോയിന്റ് യോജിക്കുന്നു അതിനാൽ ഒരു രേഖ കൊണ്ട് അവയെ യോജിപ്പിക്കുന്നു ഇപ്പോൾ ഈ o അവിടെ മാപ്പുചെയ്യുന്നു അതിനർത്ഥം ഈ നീളമുള്ള അരിക് ലംബ തലത്തിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ട് ശേഷിക്കുന്ന രേഖകൾ എല്ലായ്പ്പോഴും ഡാഷ് ചെയ്ത രേഖകളായിരിക്കും ഈ ടോപ്പ് വ്യൂ നമ്മൾ നിർമ്മിക്കുന്ന രീതിയാണിത് ഇതാണ് ടോപ്പ് വ്യൂ ഇത് ഒരു പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇതിന്റെ നീളമുള്ള അരിക് ലംബ തലത്തിൽ ഒരു ചെരിഞ്ഞ ആംഗിൾ ഉണ്ടാക്കുന്നു കൂടാതെ അതിൻറെ ഏറ്റവും നീളമുള്ള അരികുകളും തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു ഇനി നമുക്ക് ലോസ് ഉദാഹരണം നോക്കാം ഇവിടെ 80 മില്ലീമീറ്റർ ബെയ്സ് വ്യാസവും 100 മില്ലീമീറ്റർ ഉയരവുമുള്ള ഒരു കോൺ തിരശ്ചീന തലത്തിൽ അതിന്റെ ജനറേറ്ററുകളിലൊന്നിൽ കിടക്കുന്നു അതിനാൽ ഒരു കോൺ ജനറേറ്റർ തിരശ്ചീന തലത്തിൽ ആയിരിക്കണം അതിന്റെ അക്ഷം ലംബ തലത്തിലേക്ക് ചരിഞ്ഞതായി തോന്നുന്നു അതിനാൽ നമ്മൾ അത് നോക്കുമ്പോൾ ഒരു കോൺ തിരഞ്ഞെടുക്കാം ഫ്രണ്ട് വ്യൂവിലെ മുഴുവൻ സർക്കിളും നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ആദ്യം പരിഹരിക്കുക അത് ആ ദിശയിലേക്ക് തിരിയുന്നു അതിനാൽ ജനറേറ്റർ തിരശ്ചീനമായി വിശ്രമിക്കും എന്നിട്ട് ആ കോണിനെ ലംബ തലത്തിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിൽ തിരിക്കുക അതിനാൽ അത് എങ്ങനെ നിർമ്മിക്കാം നമുക്ക് ആ ഉദാഹരണം നോക്കാം നമ്മൾ പടിപടിയായി ചെയ്യണം ആദ്യം നമ്മൾ ചെയ്യുന്നത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്ന ഒരു കോണാണ് ഇത് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരു ഭ്രമണം നടത്തും അങ്ങനെ ജനറേറ്റർ തിരശ്ചീന തലത്തിൽ വിശ്രമിക്കും അത് ചെയ്യുന്നതിന് ആദ്യം തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്ന തരത്തിൽ ഒരു കോൺ നിർമ്മിക്കുക അതിന്റെ അക്ഷം തിരശ്ചീന തലത്തിന് ലംബമായിരിക്കണം അതിനാൽ ഈ തലം ലംബമായി കടന്നുപോകുന്നതിലൂടെ അക്ഷം കടന്നുപോകുന്നു ഫ്രണ്ട് വ്യൂ ഒരു ത്രികോണം പോലെ കാണപ്പെടുന്നു തുടർന്ന് ജനറേറ്ററുകളിലൊന്ന് og' നിലത്ത് വിശ്രമിക്കുന്ന തരത്തിൽ അത് തിരിക്കുക അതിനാൽ og' നിലത്ത് വരച്ചുകഴിഞ്ഞാൽ നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് പോയിന്റ് a കണ്ടെത്താൻ കഴിയും അത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും ഇത് ഒരു സർക്കിളാണ് അതിനാൽ നമ്മൾ അതിനെ 12 തുല്യ ഭാഗങ്ങളായി 8 തുല്യ ഭാഗങ്ങളായി വിഭജിച്ച് ഈ രേഖകൾ പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈനിനെ 8 തുല്യ ഭാഗങ്ങളായി പ്രൊജക്റ്റുചെയ്യുമ്പോൾ ഒടുവിൽ ഒരു എലിപ്സോയിഡ് നിർമ്മിക്കാനുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ അതിനെ യോജിപ്പിക്കുക അങ്ങനെ തിരശ്ചീന തലത്തിൽ അതിന്റെ ജനറേറ്ററിനൊപ്പം ഒരു കോൺ വിശ്രമിക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ അതിന്റെ അക്ഷം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഒരു തിരശ്ചീന തലത്തിൽ ഒരു ചെരിവ് ഉണ്ടാക്കുന്നു പക്ഷേ അത് ലംബ തലത്തിന് സമാന്തരമാണ് അതിനാൽ ആ അപെക്സ് അല്ലെങ്കിൽ ഒരു പക്ഷേ ജനറേറ്ററിൽ ആ കോൺ തിരിക്കേണ്ടതുണ്ട് അതിനാൽ അക്ഷം തന്നെ ലംബ തലത്തിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്നു അതായത് ഈ ദിശയിലേക്ക് തിരിക്കുക അങ്ങനെ അക്ഷം ലംബ തലത്തിലേക്ക് ചായുന്നു ടോപ് വ്യൂവിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അതിനാൽ ഒരുപക്ഷേ ഇൻക്ക്ളിനേഷൻ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും ഇപ്പോൾ വീണ്ടും ഇത് കൈമാറ്റം ചെയ്യുന്നത് എലിപ്സോയിഡൽ പോയിന്റുകളാണ് നമ്മൾ സർക്കിളിൽ ആ 12 പോയിന്റുകൾ അല്ലെങ്കിൽ 8 പോയിന്റുകൾ എന്തുതന്നെയായാലും ഇപ്പോൾ എലിപ്സോയിഡ് ഈ പോയിന്റുകൾ മുകളിലേക്ക് മാറ്റുന്നതായി തോന്നുന്നു അതുപോലെ ഈ 12 പോയിന്റുകൾ കൈമാറുക തുടർന്ന് നമുക്ക് പ്രൊജക്റ്റുചെയ്ത ഒന്ന് ഒരു എലിപ്സ് ആയി ലഭിക്കുകയും ഈ രേഖയിൽ യോജിക്കുകയും ചെയ്യും തിരശ്ചീന തലത്തിൽ ജനറേറ്റർ വിശ്രമിക്കുന്നതും അതിന്റെ അച്ചുതണ്ട് ലംബ തലത്തിൽ ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്നതുമായ ഒരു കോണിന്റെ ടോപ് വ്യൂയും ഫ്രണ്ട് വ്യൂയും നമ്മൾ വരയ്ക്കുന്ന രീതിയാണിത് ഒരു ഗൃഹപാഠമായി ഈ പ്രശ്നം ചെയ്യുക ബേസ് 20 മില്ലീമീറ്ററും നീളം 30 മില്ലീമീറ്ററും ഉള്ള ഒരു ത്രികോണ പിരമിഡ് ബേസിൻറെ വശത്ത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു പിരമിഡിന്റെ അക്ഷം ആ തിരശ്ചീന തലത്തിലേക്ക് 45 ഡിഗ്രിയിലും ലംബ തലത്തിലേക്ക് 60 ഡിഗ്രിയിലും ചെരിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊജക്ഷനുകൾ വരയ്ക്കുക